നമുക്ക് അവകാശമുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ 'അവകാശം' എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് അവകാശം എന്നത് ഒരു വ്യക്തിക്ക് എന്തെങ്കിലും നിയമപരമായി ലഭിക്കുന്നതിന് നിയമപരമായി തന്നെ അധികാരവും അർഹതയും ലഭ്യമാക്കുന്നതാണ് അവിടെ നീതികരണം ഉണ്ട് അംഗീകാരം ഉണ്ട് സംരക്ഷണം ഉണ്ട് ഈ അവകാശത്തിന്മേൽ നീതിപൂർവകമായ അംഗീകാരവും സംരക്ഷണവും ലഭിക്കാതെ വരുമ്പോൾ അത് നിയമവിരുദ്ധമാകുന്നു അതുകൊണ്ടുതന്നെ പരിഹാര സാധ്യതയുള്ള ഒരു നീതിനിഷേധമാണ് ആ വ്യക്തി അനുഭവിക്കുന്നത് അവകാശം എന്നത് വിശാലമായ രണ്ട് അർത്ഥങ്ങളിൽ ഉപയോഗിക്കാം ഒന്നാമതായി സ്വാതന്ത്ര്യം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു അതായത് ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു എന്ന അർത്ഥത്തിൽ രണ്ടാമതായി ലൈസൻസ് അഥവാ അനുമതി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു അഥവാ ഒരു പ്രത്യേക പ്രവർത്തി ചെയ്യുവാൻ ആരെങ്കിലും നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു അനുവദിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ അവകാശങ്ങൾ സ്വയം പ്രകടിതമാണ് ഒരു മനുഷ്യ വ്യക്തിയിൽ അന്തർലീനമായിരിക്കുന്ന അവകാശങ്ങൾ ഉണ്ട് ഉദാഹരണത്തിന് ഇന്ന് സാധാരണ നമ്മൾ പറയാറുള്ള ഹ്യൂമൻ റൈറ്റ്സ് എന്ന് വെച്ചാൽ മനുഷ്യാവകാശങ്ങൾ അഥവാ മനുഷ്യൻ എന്ന നിലയിലുള്ള അവകാശങ്ങൾ വോട്ടവകാശം ഞാൻ ഞാനായിരിക്കാനുള്ള അവകാശം സ്വകാര്യതയ്ക്കുള്ള അവകാശം ഇവയെല്ലാം ഒരു വ്യക്തിയിൽ അന്തർലീനമായിരിക്കുന്ന അവകാശങ്ങളാണ് ഒരു വ്യക്തിക്ക് അയാളുടെ വ്യക്തിത്വത്തിനും സത്തയ്ക്കും പുറത്തും അവകാശങ്ങൾ ഉണ്ട് ഉദാഹരണത്തിന് ഭൂസ്വത്ത് അപ്പോൾ ഒരാൾക്ക് അയാൾ മനുഷ്യൻ ആയിരിക്കുന്നു എന്നതിൻറെ പേരിൽ മാത്രം സംസിദ്ധമാകുന്ന ഒരു കൂട്ടം അവകാശങ്ങളുണ്ട് അവയെ inherent rights അന്തർലീനമായിരിക്കുന്ന അവകാശങ്ങൾ എന്ന് പറയുന്നു ഇതുകൂടാതെ ഒരു വ്യക്തിക്ക് വസ്തുക്കളിൽ മേൽ അവകാശം ഉണ്ടാകാം എന്തുകൊണ്ടെന്നാൽ വസ്തുക്കൾ സ്വന്തമാക്കാനും കൈവശം വയ്ക്കാനും കൈമാറ്റം ചെയ്യാനും വ്യക്തിക്ക് സാധിക്കുന്നു ഈ അർത്ഥത്തിൽ അവകാശം നിയമത്താൽ നിർമ്മിതമാണ് അതിനാൽ തന്നെ ഏതെങ്കിലും ഒരു കാര്യം അവകാശമായി ഗണിക്കപ്പെടണമെങ്കിൽ അതിന് നിയമത്തിൻറെ പിൻബലം വേണം നിയമ സാധുത ഉണ്ടായിരിക്കണം രാജ്യത്തെ പൌരന്മാർ എല്ലാവരും പങ്കുവെച്ച് അനുഭവിക്കുന്ന പൊതു സ്വഭാവമുള്ള അവകാശങ്ങൾ ഉണ്ട് ഉദാഹരണത്തിന് ഭരണകൂടത്തിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന റൈറ്റ് ഓഫ് പ്രൊട്ടക്ഷൻ സംരക്ഷിക്കപ്പെടാനുഉള്ള അവകാശം ഇത് ഏതൊരു പൌരനും അവകാശപ്പെടാവുന്നതും എല്ലാവർക്കും ലഭിക്കുന്നതുമായ ഒരു പൊതു അവകാശമാണ് എന്നാൽ പൊതുസ്വഭാവം ഇല്ലാത്ത വേറൊരു കൂട്ടം അവകാശം ഉണ്ട് അത് ഒരു പ്രത്യേക വ്യക്തിക്ക് മാത്രം ലഭ്യമാകുന്നതും അയാൾക്ക് മാത്രം പ്രയോഗത്തിൽ വരുത്താവുന്നവയുമാണ് എന്ന് വെച്ചാൽ സർവ്വാശ്ളേഷകമല്ല എല്ലാവരെയും ഉൾക്കൊള്ളുന്നില്ല എന്നർത്ഥം അപ്പോൾ നിങ്ങൾക്ക് മാത്രമായി നൽകപ്പെടുന്ന ഒരു അവകാശം ആണെങ്കിൽ അതിനർത്ഥം ഏതെങ്കിലും ഒരു പ്രവർത്തി ചെയ്യുന്നതിൽനിന്ന് മറ്റുള്ളവരെ തടയുവാൻ നിങ്ങൾക്ക് അധികാരം ഉണ്ട് എന്നാണ് ഉദാഹരണമായി നിങ്ങൾക്ക് ഭൂസ്വത്ത് ഉണ്ടെന്നിരിക്കട്ടെ ആ ഭൂമിയിലേക്ക് മറ്റുള്ളവർ കടക്കുന്നതിൽനിന്നും അതിൻറെ ഫലങ്ങൾ അനുഭവിക്കുന്നതിൽനിന്നും അവരെ തടയുന്നതിനുള്ള അധികാരവും അവകാശവും നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് ഒരു പുസ്തകം സ്വന്തമായി ഉണ്ടെന്നിരിക്കട്ടെ ആ പുസ്തകം വായിക്കുന്നതിൽ നിന്നും അതിലേക്ക് നോക്കുന്നതിൽ നിന്നും മറ്റേതെങ്കിലും വിധത്തിൽ ആ പുസ്തകം ഉപയോഗിക്കുന്നതിൽ നിന്നും മറ്റുള്ളവരെ തടയുവാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് അധികാരമുണ്ട് ചുരുക്കത്തിൽ എക്സ്ക്ലൂസീവ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് മറ്റു വ്യക്തികളെ തൻറെ അനുമതിയില്ലാതെ ഏതെങ്കിലും പ്രവർത്തി ചെയ്യുന്നതിൽ നിന്നും തടയുന്നതിന് കൽപ്പിച്ചു നൽകുന്ന അധികാരമാണ് ഈ ഒരു അർത്ഥത്തിൽ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി യുമായി ബന്ധപ്പെട്ട അവകാശങ്ങളെപ്പറ്റി പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു വെക്കുക സംരക്ഷിക്കപ്പെടാൻ അർഹതയുള്ള intellectual property യിൽ നിന്നും ഉളവാകുന്ന അഥവാ ലഭിക്കുന്ന അവകാശത്തെ പറ്റിയാണ് ഉദാഹരണത്തിന് പുസ്തകരൂപത്തിലുള്ള ഒരു കലാസൃഷ്ടി ഉണ്ടെന്നിരിക്കട്ടെ ഈ പുസ്തകം നിർമ്മിച്ച ആൾക്കോ അത് സ്വന്തമാക്കിയിരുന്ന ആൾക്കോ മറ്റുള്ള ആളുകളെ ആ പുസ്തകത്തിൻറെ തനി പകർപ്പ് ഉണ്ടാക്കുന്നതിൽ നിന്നും അതിൽനിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ നിന്നും ആ പുസ്തകം ഉപയോഗിക്കുന്നതിൽ നിന്നും തടയുന്നതിന് സാധിക്കും കാരണം അദ്ദേഹത്തിന് ആ പുസ്തകത്തിനു മേൽ ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ് ഉണ്ട് ഇക്കാര്യത്തിൽ ആ അവകാശത്തെ റൈറ്റ് ഓഫ് കോപ്പി റൈറ്റ് പകർപ്പവകാശം എന്ന് പറയുന്നു ഈ എക്സ്ക്ലൂസീവ് റൈറ്റ് ഒരു കണ്ടുപിടിത്തത്തിൽമേൽ ആണെങ്കിൽ അതിനെ പെയ്റ്റൻറ് റൈറ്റ് നിർമ്മാണ അവകാശ കുത്തക എന്നു പറയുന്നു ഈ കണ്ടുപിടിത്തം വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്നതിനോ അത് വിൽക്കുന്നതിനോ വിൽപ്പനയ്ക്ക് വെക്കുന്നതിനോ ഇറക്കുമതി ചെയ്യുന്നതനോ ഉള്ള എല്ലാ അധികാരങ്ങളും സ്വാതന്ത്ര്യവും ഈ അവകാശം ആ വ്യക്തിക്ക് നൽകുന്നു കൂടാതെ മറ്റേതെങ്കിലും വ്യക്തി അനുമതി കൂടാതെ മേൽ പറഞ്ഞ പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ അയാൾ ശരിയായ ഉടമസ്ഥൻറെ ഉടമസ്ഥാവകാശത്തെ നിഷേധിക്കുകയും ലംഘിക്കുകയും ആണ് ശരിയായ ഉടമസ്ഥൻറെ അവകാശത്തിന്മേൽ ഉള്ള ഈ കടന്നുകയറ്റത്തെ ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി ലോ യിൽ ഇൻഫ്രിഞ്ച്മെന്റ് എന്നു പറയുന്നു ഇൻഫ്രിഞ്ച്മെന്റ് ൻറെ സാങ്കേതിക അർത്ഥം ട്രസ്പാസ് എന്നാണ് അതായത് അതിക്രമിച്ച് കടക്കൽ കയ്യേറ്റം ചെയ്യൽ എന്നൊക്കെ ആണ് ഒരുപക്ഷേ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും ഒരാളുടെ പേരിൽ ഉള്ള ഭൂമിയുടെ മുൻപിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് അർത്ഥം ലളിതമാണ് ആരെങ്കിലും ഈ സ്ഥലത്തേക്ക് നുഴഞ്ഞുകയറുക യാണെങ്കിൽ അത് ഇതിൻറെ ഉടമസ്ഥൻൻറെ അവകാശത്തിന്മേൽ ഉള്ള കടന്നുകയറ്റം ആയിരിക്കും അങ്ങനെ ചെയ്യുന്ന ആൾ സിവിൽ നിയമപരമായും ക്രിമിനൽ നിയമപരമായും പരിഹാരം കൊടുക്കേണ്ടിവരും ഒരു ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി യിലേക്കാണ് ട്രസ്പാസ് അഥവാ കടന്നുകയറ്റം നടക്കുന്നതെങ്കിൽ അതിനെയും ഇൻഫ്രിഞ്ച്മെന്റ് എന്ന് പറയുന്നു ഇൻഫ്രിഞ്ച്മെന്റ് എന്നാൽ മറ്റൊന്നുമല്ല മറ്റൊരാളുടെ ഇൻ്റലെക്ച്വൽ പ്രോപ്പർട്ടി യിലേക്കുള്ള ട്രസ്പാസ് അഥവാ കടന്നുകയറ്റം ആണ് ഇൻ്റലെക്ച്വൽ പ്രോപ്പർട്ടി യോടനുബന്ധിച്ചുള്ള എല്ലാതരം അവകാശങ്ങളുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സ്ഥിതി ഞാൻ നേരത്തെ പറഞ്ഞതു പോലെ കണ്ടുപിടുത്തങ്ങളുടെ കാര്യത്തിൽ അവ ഉപയോഗിക്കാനും വിൽക്കുവാനും വിൽപ്പനയ്ക്ക് വെക്കുവാനും ഇറക്കുമതി ചെയ്യുവാനും ഉള്ള ഉടമസ്ഥൻറെ അവകാശത്തെ പേറ്റൻറ് ലോ സംരക്ഷിക്കുന്നു ഇതിൽ ഏതെങ്കിലുമൊരു അവകാശത്തിൽ ആരെങ്കിലും കടന്നു കയറിയാൽ അതിനെ ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് നമ്മൾ പറയും